ചാർജുകളുടെ ഡിസ്ട്രിബ്യൂഷൻ മൂലം ചെലുത്തപ്പെടുന്ന ഫോഴ്സ് കഴിഞ്ഞ ക്ളാസിൽ നാം ഒരു ചാർജിൽ മറ്റ് ഒരു കൂട്ടം ചാർജുകൾ മൂലമുള്ള ഫോഴ്സ് കണക്കാക്കി ഇതിനായി നാം സൂപ്പർപോസിഷൻ തത്വം ഉപയോഗിച്ചു ഈ ക്ളാസിൽ ഒരു ചാർജിൽ ഒരു പറ്റം ചാർജുകളുടെ ഡിസ്ട്രിബ്യൂഷൻ മൂലമുള്ള ഫോഴ്സ് നമുക്ക് കണക്കാക്കാം ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു രേഖയിൽ വിന്യസിക്കപ്പെട്ട ചാർജ് അതായത് ഒരു യൂണിറ്റ് നീളത്തിൽ ഇത്ര ചാർജ് എന്ന് ഞാൻ പറയും ഇതാണ് വിന്യാസം കൂടാതെ ഇത് സ്വതന്ത്രമായിരിക്കാം ഒരു വൃത്തത്തിൽ അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള തകിടിൽ ചാർജ് ഡിസ്ട്രിബ്യുട്ട് ചെയ്യപ്പെട്ടിരിക്കാം ഇവിടെ ഞാൻ പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് നീളം λനീളം സാധാരണ ഇത് λ എന്നും അല്ലെങ്കിൽ യൂണിറ്റ് വിസ്തീർണത്തിൽ ഉള്ള ചാർജ് ചാർജ്വിസ്തീർണം σ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ ഉള്ള ചാർജ് ചാർജ്വ്യാപ്തംρ→ എന്നത് ചാർജ് ഡെൻസിറ്റി യൂണിറ്റ് വ്യാപ്തത്തിലുള്ള ചാർജ് ഇതിനെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുംഉപരിതല ചാർജ് ഡെൻസിറ്റി രേഖ ചാർജ് ഡെൻസിറ്റി എന്നിവ അപ്പോൾ നമുക്ക് ഈ സാഹചര്യങ്ങൾ നോക്കാം തുടക്കത്തിൽ നമുക്ക് L2 മുതൽ L2 വരെ യുള്ള ഒരു ചാർജ് നോക്കാം അതായത് ഇതിന്റെ മദ്ധ്യം ഒറിജിനിൽ ആണ് ഇത് Y ദിശയിൽ ആണ് ഇത് X ദിശയിൽ ഒറിജിനിൽ നിന്നും x അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന q എന്ന ചാർജിൻമേലുള്ള ഫോഴ്സ് ആണ് കണക്കാക്കേണ്ടത് ഈ ലൈൻ ചാർജിനെ ഞാൻ മറ്റൊരു നിറത്തിൽ അടയാളപ്പെടുത്താം ഞാൻ ഇത് ചുവപ്പു നിറത്തിൽ അടയാളപ്പെടുത്തി ഇത് യൂണിറ്റ് നീളത്തിൽ λ അളവിലുള്ള ഒരു രേഖാ ചാർജ് ആണ് പിന്നീട് നാം ഒരു പറ്റം ചാർജുകളുടെ കാര്യത്തിൽ ചെയ്ത പോലെ ഒറിജിനിൽ നിന്ന് y അകലത്തിലുള്ള dy നീളത്തിലുള്ള ഒരു ചെറിയ ചാർജ് എടുക്കുക ഇത് q വിൽ പ്രയോഗിക്കുന്ന ബലത്തിന്റെ x ഘടകവും y ഘടകവും കാണുക ഈ എലെമെന്റിൽ നിന്നും q ചാർജിലേക്കുള്ള അകലം x2 y2 ന്റെ റൂട്ട് ആകുന്നു കൂളംബ് നിയമപ്രകാരം q വിന്മേലുള്ള ബലം F വെക്ടർ എന്നത് dyqλ4πϵ0 ഗുണം 1x2y212 x ന്യൂനം yy ഭാഗം x2y212 ദിശയിൽ ആണ് ഞാൻ ഈ എഴുതിയ വെക്ടർ നിങ്ങൾക്ക് വെക്ടർ പരിശോധിക്കുവാൻ സാധിക്കും ഇതും അതിന്റെ അളവ് കൊണ്ട് ഭാഗിക്കുമ്പോൾ എനിക്ക് ആ ദിശയിലുള്ള യൂണിറ്റ് വെക്ടർ കിട്ടുന്നു അതാണ് ശരിക്കും ഫോഴ്സിന്റെ ദിശ അപ്പോൾ Fx എന്നത് x ഘടകം ഇത് qλ4π0 ഗുണം xdyx2y232 32 വരുന്നത് ഈ രണ്ടു അംശങ്ങളും ചേരുമ്പോൾ ആണ് ഇത് L2 മുതൽ L2 വരെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ എനിക്ക് qλ4πϵ0x അവിടെത്തന്നെ നിൽക്കും ബാക്കിയുള്ളത് ഇന്റഗ്രൽ L2 dy ഭാഗം x2y232 നിങ്ങൾ y xtanθ എന്ന് പകരം എഴുതുമ്പോൾ dy എന്നത് x sec2θdθ yxtanθ dyx sec2θdθ ഇത് ഇന്റെഗ്രലിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് Fx qλ4πϵ0 tan 1 L2x മുതൽ θ tan 1 L2x xsec2θ dθ ഭാഗം x3sec3θ ഞാൻ ചില അംശങ്ങൾ അന്യോന്യം ക്യാൻസൽ ചെയ്യുവാൻ പോകുന്നു ഈ x ഉം ഈ x ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യപ്പെടുന്നു അപ്പോൾ ഈ x മാത്രം കിട്ടുന്നു ഈ sec2 θ ഭാഗം sec3θ മുകളിലെ cosθ ആകുന്നു അങ്ങിനെ ഈ ഇന്റഗ്രൽ qλ4πϵ0 tan 1 L2x മുതൽ tan 1L2x വരെ cosθdθ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നു ഇത് 2qλ4πϵ0 ഈ x ഇവിടെയും ഉണ്ട് അപ്പോൾ ഈ x ഇവിടെ sn tan 1 L 2 x എന്നത് ഞാൻ ഈ രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് qλ2πϵ0 ഗുണം1 x sin tan 1 L 2 x എന്നത് LL24x212 എന്നാകുന്നു അതാണ് Fx ന്റെ ഉത്തരം എന്താണ് y ഘടകം y ഘടകം എന്നത് Fy സമം qλ നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ എഴുതുന്നത് മുൻപത്തെ സ്ലൈഡിലെ വാക്യം തന്നെയാണ് x നു പകരം 4πϵ0 എന്തെന്നാൽ ഇപ്പോൾ ഞാൻ y ദിശയിലെ ഘടകം എടുക്കാൻ പോകുകയാണ് അതിനാൽ ഞാൻ ydyx2y232 ഇത് L2 മുതൽ L2 വരെ ഇത് ഒരു ഒറ്റ ഇന്റഗ്രൽ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇത് അപ്രത്യക്ഷമാകുന്നു അപ്പോൾ ഒരു രേഖ ചാർജിന്റെ മധ്യത്തിൽ കൂടി പോകുന്ന രേഖയിൽ x അകലത്തിലുള്ള ഒരു ചാർജ് q വിന്മേലുള്ള ബലത്തിന് x ഘടകം മാത്രമാണുള്ളത് ഇതിന്റെ അളവ് Fx എന്നത് qλ4πϵ0 x LL24x212 ആണ് L ഇൻഫിനിറ്റിയി ലേക്ക് നീളുമ്പോൾ അതായത് രേഖയുടെ നീളം ഇൻഫിനിറ്റി ആകുമ്പോൾ Fx എന്നത് qλ2πϵ0x എന്ന കേൾവി കേട്ട ഉത്തരമാകുന്നു നമുക്ക് രണ്ടാമത്തെ ഉദാഹരണം എടുക്കാം ഇതിനായി ഞാൻ ഒരു റിങ് ആകൃതിയിലുള്ള ചാർജ് എടുക്കുന്നു പിന്നെയും യൂണിറ്റ് നീളത്തിൽ ലാംഡാ ചാർജ് ഉള്ളപ്പോൾ ഈ റിങ്ങിൽ നിന്നും h അകലത്തിലുള്ള ഒരു ചാർജ് q വിന്മേലുള്ള ഫോഴ്സ് കണക്കാക്കാം ഈ രേഖ ചാർജിന്റെ ഒരംശം ഒരു ഫോഴ്സ് ഇതിൽ ചെലുത്തുന്നു നമുക്ക് എതിർ വശങ്ങളിലുള്ള രണ്ടു അംശങ്ങൾ എടുക്കുക ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു പ്രത്യേക കാരണം ഉണ്ട് ഞാൻ ഈ എലമെന്റ് കാരണമുള്ള ഫോഴ്സ് നോക്കുകയാണെങ്കിൽ അത് ഈ ദിശയിലാണ് ചൂണ്ടുവാൻ പോകുന്നത് ഞാൻ ഈ എലമെന്റ് കാരണമുള്ള ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ അത് ഈ ദിശയിലാണ് എല്ലാ അകലങ്ങളും ഈ റേഡിയസ് R ആണെങ്കിൽ ഈ അകലം h2R2 ആണ് അതുപോലെ ഈ അകലവും h2R2 ആണ് അതിനാൽ ഈ രണ്ടു എലമെന്റ് മൂലമുണ്ടാകുന്ന ഫോഴ്സ് തുല്യമാണ് കൂടാതെ അവയുടെ തിരശ്ചീന ഘടകങ്ങൾ അന്യോന്യം എതിർ ദിശയിലായിരിക്കുകയും അതിനാൽ പരസ്പരം ക്യാൻസൽ ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ ലംബ ഘടകം മാത്രമാവും അവശേഷിക്കുക ഓരോ അംശങ്ങളുടെയും ലംബ ഘടകങ്ങൾ എടുത്ത് അവ എല്ലാം കൂടി കൂട്ടുകയാണ് നമുക്ക് ലംബ ഘടകം എന്താണെന്ന് നോക്കാം ഈ dl നീളത്തിലുള്ള എലമെന്റ് λdl കാരണം q വിന്മേലുള്ള ബലത്തിന്റെ ലംബ ഘടകം 4πϵ0 ഗുണം ഫോഴ്സിന്റെ അളവ് ഗുണം 1h2R2 ആയിരിക്കും ഇപ്പോൾ ഞാൻ ഇത് ലംബ ഘടകം ആണെന്ന് എടുക്കുന്നു അപ്പോൾ ഈ ഉയരം മായ്ക്കാം ഇപ്പോൾ ഇത് വ്യക്തമാണ് ഈ ആംഗിൾ θ ആണെങ്കിൽ ഈ ആംഗിളും അങ്ങനെയാണ് അതിനാൽ ലംബ ഘടകം FCosθ ആകുന്നു ഇത് ഈ ത്രികോണ പ്രകാരം h ഭാഗം ഈ അകലമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് qλ4πϵ0 ഭാഗം h2r212 ഇത് h2r232 ആകും കൂടാതെ അവിടെ ഒരു dl ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ ഫോഴ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആകെ ഫോഴ്സ് ലഭിക്കും ഈ ഇന്റഗ്രൽ എല്ലാ അളവുകളും qλ എല്ലാം സ്ഥിരമാണ് അതിനാൽ വരുന്ന ഒരേ ഒരു ഇന്റഗ്രേഷൻ dl ന്റേതാണ് ഇത് യഥാർത്ഥത്തിൽ റിങ്ങിന്റെ നീളമാണ് അതായത് 2πR അതിനാൽ ആകെ ഫോഴ്സ് ലംബ ദിശയിൽ മാത്രമാണ് ഇത് 2πqλhR ഭാഗം 4πϵ0 h2R232 2πR എന്നത് നീളം ഗുണം λ യഥാർത്ഥത്തിൽ വലയത്തിന്റെ മൊത്തം ചാർജ് ആണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് കൊണ്ട് റിങ്ങിലുള്ള ആകെ ചാർജ് Qqh4πϵ0h2R232 എന്ന് എനിക്ക് എഴുതാൻ കഴിയും ഞാൻ സ്ക്രീനിന്റെ ഇടതു വശത്തു എഴുതിയിരിക്കുന്നത് h പൂജ്യത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പൂജ്യം ആകുന്നു അപ്പോൾ ഫോഴ്സ് പൂജ്യമാകുന്നു ഇത് സ്വാഭാവികമാണ് എന്തെന്നാൽ ചാർജ് ഇവിടെയാണ് ഫോഴ്സ്കൾ എല്ലാ വശങ്ങളിൽ നിന്നും ഇതിനെ തുല്യമായി തള്ളുന്നു അതിനാൽ ഇതാണ് ഉത്തരം എനിക്കിപ്പോൾ ഈ ഫലം ഉപയോഗിച്ച് ഒരു വൃത്താകൃതിയിലുള്ള ഡിസ്കിന്റെ ആക്സിസിൽ സ്ഥിതി ചെയ്യുന്ന ചാർജിൽ വരുന്ന ഫോഴ്സ് കണക്കാക്കാം അതാണ് ഞാൻ എന്റെ മൂന്നാമത്തെ ഉദാഹരണത്തിൽ നല്കാൻ പോകുന്നത് മൂന്നാമത്തെ ഉദാഹരണത്തിൽ ഞാൻ ഒരു വൃത്താകൃതിയിലുള്ള ഡിസ്ക് എടുത്ത് അതിന്റെ ആക്സിസിൽ h ഉയരത്തിൽ ഒരു ചാർജ് വയ്ക്കുന്നു ഞാൻ മുൻപിലെ ഉദാഹരണത്തിലെ ഫലം ഉപയോഗിക്കുവാൻ പോകയാണ് അതിൽ ചാജിലെ ഫോഴ്സ് ലംബ ദിശയിൽ ആണെന്ന് നാം കണ്ടു അതിന്റെ അളവ് Qqh4πϵ0h2R232 ഞാൻ ഈ ഡിസ്കിനെ ആകെ ചെറിയ ചെറിയ റിങ്ങുകളായി തിരിക്കുന്നു അപ്പോൾ നമുക്ക് റേഡിയസ് R ഉള്ള ഒരു റിങ് എടുക്കാം ഇതിന്റെ വീതി dr ആണ് ഇതിൽ യൂണിറ്റ് ഏരിയയിൽ σ ചാർജ് ഉണ്ട് ഈ വലയത്തിന്റെ മൊത്തം ചാർജ് Q എങ്കിൽ ഈ ചെറിയ സ്ഥലത്തു ചാർജ് dQ ഇത് σ ഗുണം 2πrdr ആണ് 2πrdr എന്നത് വലയത്തിന്റെ വിസ്തീർണമാണ് അതിനാൽ ഈ റിങ് മൂലമുള്ള ഫോഴ്സ് നമുക്ക് ഈ വ്യത്യസ്ത ഫോഴ്സ് dQ എന്നത് എഴുതാം ഇത് σ ഗുണം 2πQ ഭാഗം 4πϵ0 hh2 r232 ആണ് കൂടാതെ ഇവിടെ ഒരു rdr ഇന്റഗ്രേഷന് വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആകെ ഫോഴ്സ് ലംബമായിരിക്കും ഇത് 2πσqh4πϵ0 ഇന്റഗ്രേഷൻ r 0 മുതൽ R വരെ നീങ്ങുന്നു rdrh2r232 ഇപ്പോൾ ഞാൻ h2r2ന് പകരം y2 എന്ന് ഇടുകയാണ് h2r2 y2rdrydy അപ്പോൾ rdrഎന്നത് ydy എന്ന് മാറുന്നു എനിക്ക് ലംബ ഫോഴ്സ് 2πσq 4πϵ0 ഈ ഇന്റഗ്രേഷൻ ഇപ്പോൾ h മുതൽ h2R212 വരെ ydyy3 ആകുന്നു ഇത് എനിക്ക് y2 നൽകുന്നു അപ്പോൾ എനിക്ക് 2πσ4πϵ0 ഗുണം 1y ഒരു അടയാളത്തോടു കൂടി hh2R212 അപ്പോൾ ഉത്തരം നമുക്ക് ഇതും ക്യാൻസൽ ചെയ്യാം 2 σq ഭാഗം 2 ϵ0 1h 1 h2R21 ഇത് ലംബ ദിശയിലായിരിക്കും Rഇൻഫിനിറ്റിയാകുകയാണെങ്കിൽ ഫോഴ്സ് σq2πϵ0 ആകും മുൻപിലത്തെ പേജിൽ ഞാൻ വിട്ടു പോയ h ഇല്ല അപ്പോൾ ഇവിടെ 1 h ഉണ്ട് അടുത്ത പേജിൽ ഒരു h ഇവിടെ ഉണ്ട് ഇത് ഞാൻ മറ്റൊരു നിറത്തിൽ കാണിക്കട്ടെ അതിനാൽ ഫോഴ്സ് σq2πϵ0 ആകുന്നു അതാണ് ഉത്തരം അപ്പോൾ ഞാൻ മൂന്ന് ലഘുവായ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മൂലമുള്ള ഫോഴ്സി ന്റെ ഉദാഹരണങ്ങൾ ചെയ്തു